ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഹെംഹോൾട്സ് തിയറം എങ്ങിനെയാണ് ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കുക എന്നതാണ് നാം ചെയ്യാൻ പോകുന്ന ഒരു ജോലി ഒരു ചാർജ് വിന്യാസം നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ പോകുകയാണ് ഈ r ൽ ഉള്ള E എന്നത് 1 ഭാഗം 4 പൈ എപ്സിലോൺ ൦ ഇന്റഗ്രേഷൻ dv റോr 'r r ' ഭാഗം |r r' | ക്യൂബ്ഡ് ഇവിടെ ഇങ്ങിനെയാണോ ഞാൻ ഇത് എപ്പോഴും കണക്കാക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം ഞാൻ ഈ ചാർജിനെപ്പറ്റി അറിവില്ലാത്ത ഈ സ്ഥലത്തു പോകുന്നു പക്ഷെ എനിക്കിവിടെ ഈ പോയിന്റുകളിലുള്ള ഫീൽഡ് അറിയാം ഞാൻ ഇത് മറ്റൊരു നിറത്തിൽ അടയാളപ്പെടുത്തട്ടെ എനിക്ക് ഈ പോയിന്റിലെ ഫീൽഡ് അറിയാം എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്നാൽ ഒരു അതിർത്തിയിലുള്ള ഫീൽഡ് ഉണ്ടെങ്കിൽ ചാർജ് വിന്യാസത്തെക്കുറിച്ച് അറിയില്ല പക്ഷെ അതിരിലെ ഫീൽഡ് അറിയാം എനിക്കിവിടെ ബാക്കിയുള്ള സ്ഥലത്തെ ഫീൽഡ് കണക്കാക്കാൻ കഴിയുമോ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ചാർജിന്റെ അളവ് വിശദമാക്കാത്ത പക്ഷം ഒരു ഗോളാകൃതിയിലുള്ള വസ്തു എത്ര ചാർജ് വഹിക്കും പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ഈ വസ്തു മറയ്ക്കാം ഈ ഫീൽഡിന്റെ സർഫേസിൽ എല്ലാം സമമാണ് ഗോളത്തിൽ കൂടാതെ ഇതിന്റെ അളവ് ഒരു സ്ഥിരമായ സംഖ്യ ആണ് എനിക്ക് ബാക്കി ഉള്ള സ്ഥലത്തെ ഫീൽഡ് കണക്കാക്കാൻ സാധിക്കുമൊ ഈ അവസ്ഥയിൽ ഇത് വളരെ എളുപ്പമാണ് എന്തെന്നാൽ നിങ്ങൾ ഈ ചുവന്ന ഗോളത്തിന്റെ കേന്ദ്രം എടുക്കാൻ പോകുന്നു എന്നിട്ട് പറയുന്നു സർഫേസിൽ E എന്നത് അസ്സന്നിഗ്ധമായി ¼ പൈ എപ്സിലോൺ0 എല്ലാം ഗോളമായതിനാൽ അല്പം ചാർജ് ഉള്ളിൽ ഭാഗം R സ്ക്വയർ അതിനാൽ E കുറേക്കൂടി വെളിയിൽ 1 ഭാഗം 4 പൈ എപ്സിലോൺ 0 Q ഭാഗം R സ്ക്വയർ ഗുണം R സ്ക്വയർ ഭാഗം r സ്ക്വയർ ഞാൻ R സ്ക്വയർ കൊണ്ട് ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്തു ഇത് ഞാൻ പറയുന്നത് ER ഗുണം R സ്ക്വയർ ഭാഗം r സ്ക്വയർ അപ്പോൾ ഇവിടെ എനിക്ക് വാദിക്കാം എന്തെന്നാൽ ഈ ഫീൽഡിന്റെ രീതി ഗോളത്തിൽ ഒരു കേന്ദ്രത്തിൽ നിന്ന് എല്ലാ ദിശയിലും സമമാണ് അതിനാൽ ഇത് ഒരു പോയിന്റ് ചാർജ് കാരണമായി ആണ് എന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് ഇതേ തലത്തിൽ ഫീൽഡ് ഏതെങ്കിലും ഒരു ദിശയിൽ ആണെന്കിൽ ഒരു ഉദ്ദേശം ചാർജ് അളവ് സർഫേസിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യേണ്ടത് എന്തെന്നാൽ വെളിയിൽ ഉള്ള ഈ ഫീൽഡ് എടുത്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സഹായത്താൽ അടുത്ത പോയിന്റ് കണ്ടു പിടിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തു കൊണ്ടേയിരിക്കുക അപ്പോൾ ഒരു ബൌണ്ടറിയിൽ നിന്ന് തുടങ്ങി ഫീൽഡിന്റെ ഡിഫറെൻഷ്യലുകൾ അറിയാമെങ്കിൽ ഒരാൾക്ക് എല്ലായിടത്തെയും ഫീൽഡ് കണ്ടുപിടിക്കാം ഇപ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതായത് ഒരിടത്തെ ചാർജ് എത്രയാണെന്ന് എല്ലായെപ്പോഴും ഞാൻ അറിഞ്ഞിരിക്കണമെന്നില്ല എനിക്ക് തന്നിട്ടുള്ള ബൌണ്ടറിയിൽ ഫീൽഡ് എത്രയാണെന്ന് ഒരു പക്ഷെ എനിക്കറിയാമായിരിക്കും ഇവിടെ നിന്ന് ഞാൻ എങ്ങിനെയാണ് ഇത് രൂപപ്പെടുത്തുന്നത് അപ്പോൾ എനിക്ക് ഡിഫറെൻഷ്യലുകൾ അറിയാമെങ്കിൽ എനിക്കത് ചെയ്യാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ E ഫീൽഡ് അറിയാവുന്ന ഒരു അതിരിൽ നിന്നും ബാക്കി ഫീൽഡ് കണ്ടു പിടിക്കാൻ പറ്റിയ ഒരു ഡിഫെറെൻഷ്യൽ ഇക്വേഷനെ സാധൂകരിക്കുന്നുവോ ഈ വസ്തുത വ്യക്തമായോ അപ്പോൾ നാം ചെയ്യുന്നത് എന്തെന്നാൽ നാം ഒരു പ്രത്യേക അതിരിലുള്ള ഫീൽഡ് അറിയാമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തു ബാക്കി ഫീൽഡ് നിർമ്മിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫെറെൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എത്ര മാത്രം നിർവ്വചനങ്ങൾ ഉണ്ടെന്നു നോക്കുക E ക്ക് മൂന്ന് ഘടകങ്ങൾ ഉണ്ട് എന്തെന്നാൽ ഇത് ഒരു വെക്ടർ അളവാണ് നമുക്ക് Ex x ദിശയിൽ E y y ദിശയിൽ Ez z ദിശയിൽ ഇവയെല്ലാം x y z ഇവയുടെ ഫങ്ക്ഷനുകൾ ആണ് അപ്പോൾ ഞാൻ പോയിന്റിൽ നിന്നും പോയിന്റിലേക്ക് പോകുന്നു ഈ പോയിന്റിൽ നിന്നും ഈ ബിന്ദുവിലേക്ക് ഈ ബിന്ദുവിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഞാൻ y ഉം z ഉം നിലനിർത്തി x മാറ്റുമ്പോൾ Ex ന്റെ എല്ലാ മൂന്ന് ഘടകങ്ങളും മാറുന്നു ഇതിനർത്ഥം ഞാൻ x അടിസ്ഥാനമാക്കി ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു എന്നാണ് ഞാൻ y മാറ്റിയാൽ Ex ഉം മാറുന്നു അല്ലെങ്കിൽ z മാറ്റിയാൽ Ex ഉം മാറുന്നു അത് പോലെ എല്ലാ ഘടകങ്ങളും മാറുന്നു അപ്പോൾ ഇത് x ഇത് y ഇത് z ഞാൻ ഇവിടെ നിന്ന് xz തലത്തിൽ പോകുകയാണ് ഞാൻ ഇവിടേക്ക് നീങ്ങുമ്പോൾ Ex ഘടകം മാറാം ഞാൻ y ദിശയിൽ പോകുകയാണെങ്കിലും Ex ഘടകം മാറാം അതിനാൽ അത് ഈ മൂന്ന് പാർഷ്യൽ ഡെറിവേറ്റീവുകളാൽ തിട്ടപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ y ഘടകവും z ഘടകവും എല്ലാ മൂന്നു കോ ഓർഡിനേറ്റുകളുടെ മാറ്റം അനുസരിച്ച മാറുന്നു അങ്ങനെ ത്തവികമായി എനിക്ക് അറിയാവുന്ന ഒരു പോയിന്റിൽ നിന്നും തുടങ്ങി മറ്റൊരു പോയിന്റിലെ ഫീൽഡ് കണക്കാക്കുന്നതിനായി ഒൻപത് ഡിഫറെൻഷ്യലുകൾ ആവശ്യമാണ് ഒരു ഘടകത്തിന് മൂന്നെണ്ണം വീതം എനിക്ക് ഇതെല്ലാം എഴുതേണ്ടി വരും ഭാഗ്യവശാൽ നമുക്ക് ഒരു തിയറം ഉണ്ട് ഞാൻ ഹെംഹോൾട്സ് തിയറം എന്നറിയപ്പെടുന്ന ഇത് തെളിയിക്കാതെ പ്രസ്താവിക്കാൻ പോകയാണ് ഇത് പറയുന്നതെന്തെന്നാൽ ഒരു ബൌണ്ടറി നല്കിയിട്ടുള്ളപ്പോൾ എനിക്ക് ഈ ബൌണ്ടറിയിലുള്ള ഒരു വെക്ടർ ഫീൽഡ് ന്റെ ഈ അതിർത്തിയിലുള്ള ലംബ ഘടകം അറിയാം എന്ന് വിചാരിക്കുക അപ്പോൾ മുഴുവൻ ഫീൽഡ് ന്റെയും ലംബ ഘടകം അറിയാം എന്നാൽ ഞാൻ ഈ അളവുകൾ പിന്നീട് നിർവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം നമുക്കിതിനെ ഡൈവർജെൻസ് അറിയാം എങ്കിൽ ഞാനിത് ഒരു മിനിറ്റിനുള്ളിൽ വിശദീകരിക്കാം ഇത് ഡെറിവേറ്റീവുകളുടെ ഒരു മിശ്രണമാണ് ഡൈവർജൻസ് എന്നത് x ഘടകത്തിന്റെ x അടിസ്ഥാനമായ ഡെറിവേറ്റീവ് y ഘടകത്തിന്റെ y അടിസ്ഥാനമായ ഡെറിവേറ്റീവ് z ഘടകത്തിന്റെ z അടിസ്ഥാനമായ ഡെറിവേറ്റീവ് ഇവയുടെ എല്ലാം തുകയാണ് നമുക്ക് ഡൈവേർജെൻസ് ഉം മറ്റൊരു അളവ് കേൾ എന്നതും എത്രയാണ് എന്നറിയാമെങ്കിൽ ഞാൻ ഇതിന്റെ ഘടകങ്ങൾ എഴുതട്ടെ ഉദാഹരണത്തിന് കേൾ ന്റെ x ഘടകം എന്നത് പാർഷ്യൽ Ez ഭാഗം പാർഷ്യൽ y മൈനസ് പാർഷ്യൽ Ey ഭാഗം പാർഷ്യൽ z y ഘടകം എന്നത് പാർഷ്യൽ Ex ഭാഗം പാർഷ്യൽ z മൈനസ് പാർഷ്യൽ Ez ഭാഗം പാർഷ്യൽ x x ഘടകം എന്നത് പാർഷ്യൽ Ey ഭാഗം പാർഷ്യൽ x മൈനസ് പാർഷ്യൽ Ey ഭാഗം പാർഷ്യൽ y എനിക്ക് ഈ അളവ് കേൾ ഉം ഡൈവർജൻസ് ഉം അറിയാമെങ്കിൽ എനിക്ക് എല്ലായിടത്തെയും ഫീൽഡ് കണക്കാക്കാം അപ്പോൾ ഇതാണ് ഹെംഹോൾട്സ് തിയറം കൂടാതെ എനിക്ക് ഒരു അതിർത്തിയിലുള്ള ലംബ ഘടകം അറിയാമെങ്കിൽ എനിക്ക് ഡൈവർജൻസ് ഉം കെളും അറിയുക മാത്രമേ വേണ്ടു നമുക്കിതിന്റെ അർഥം മനസിലാക്കാം അതാണ് ഈ പ്രസംഗത്തിന്റെ ഇന്നത്തെ ശേഷഭാഗം ഞാൻ ഒരു വെക്ടർ ഫീൽഡിന്റെ ഡൈവർജൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകയാണ് നിങ്ങൾ ഡൈവേർജന്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാകും ഡൈവേർജെൻസ് എന്നാൽ ഒരു പോയിന്റിൽ നിന്നും അകന്നു പോകുന്നത് എന്നാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ പ്രകാശരശ്മികൾ തുടങ്ങിയവ അടിസ്ഥാനപരമായി ഇത് അർത്ഥമാക്കുന്നത് പ്രത്യേകമായി എന്നാണ് എന്തെന്നാൽ നിങ്ങൾ 12 ആം ക്ളാസ് പുസ്തകത്തിൽ ഇത് കണ്ടിട്ടുണ്ടാകും പ്രകാശരശ്മികൾ തമ്മിൽ അകന്നു പോകുകയാണെങ്കിൽ ഡൈവേർജന്റ് എന്ന് പറയാം ആൾക്കാർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ ഡൈവേർജന്റ് കാഴ്ചപ്പാടുകൾ എന്ന് പറയാം പക്ഷെ ഇലക്ട്രിക്ക് ഫീല്ഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ താൽപ്പര്യമില്ല നമുക്ക് താൽപ്പര്യം ഈ ഡൈവേർജിങ് ഗണിത അളവുകളാണ് പ്രകാശരശ്മികൾ വികേന്ദ്രീകരിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രകാശരശ്മികളെ ഒരു വെക്ടർ ഫീൽഡിൽ പ്രതിനിധാനം ചെയ്യിക്കുകയും ഈ ഫീൽഡിലെ രേഖകൾ വെക്റ്ററുകളെ സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന പറയുകയും ചെയ്യാം ഇവിടെ നമുക്കറിയേണ്ടത് ഈ ഡൈവർജൻസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതും അതിനെ വളരെ വളരെ വ്യക്തമായി നിർവചിക്കുന്നത് എങ്ങിനെയെന്നുമാണ് നാം എന്തെങ്കിലും ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ നിർവചിക്കാൻ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ദ്രാവകത്തിന്റെ ഒഴുക്കാണ് ഈ ജലം അല്ലെങ്കിൽ മറ്റൊരു ദ്രാവകം ഒഴുകുന്നു കൂടാതെ എല്ലായിടത്തും ഇതിന് വ്യത്യസ്ത പോയിന്റുകളിൽ വ്യത്യസ്ത ഒഴുക്കുണ്ട് ഇത് ഡൈവേർജ് ചെയ്യുന്ന പ്രകാശരശ്മികൾക്ക് സമാനമാണ് ഈ വേഗതയും ഡൈവേർജ് ചെയ്യുന്നു നമുക്ക് ഈ ഡൈവേർജെൻസ് എന്താണ് എന്ന മനസ്സിലാക്കാൻ സാധിക്കുമോ നമുക്കിതിന് ക്ലിപ്തമായ ഒരു അർഥം നല്കാൻ സാധിക്കുമോ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ വളരെച്ചെറിയ ഒരു വോളിയം എടുക്കുകയാണെങ്കിൽ എത്രയെങ്കിലും ദ്രാവകം ഇതിലേക്ക് ഒഴുകി വരുന്നു എത്ര പുറത്തേക്ക് പോകുന്നു രണ്ടും തുല്യമാണ് അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന അത്രയും ദ്രാവകം പുറത്തേക്ക് പോകുന്നു അതായത് ഞാൻ പറയുന്നത് ഇത് ഡൈവേർജ് ചെയ്യുന്നില്ല എന്നാണ് അതെ സമയം പുറത്തേക്ക് പോകുന്നത് ഉള്ളിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ഡൈവേർജെൻസ് ആണെന്നാണ് ദ്രാവകത്തിന്റെ ഒഴുക്ക് ഒഴുക്കിന്റെ വേഗത എല്ലാം വികേന്ദ്രീകൃതമാണ് എന്തെന്നാൽ ഇവ ഉള്ളിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് എടുക്കുന്നു അതെ സമയം പുറത്തേക്ക് പോകുന്ന ദ്രാവകത്തിന്റെ അളവ് ഉള്ളിലേക്ക് വരുന്നതിനേക്കാൾ കുറവ് ആണെങ്കിൽ ഇതിനെ കോൺവെർജിങ് എന്ന് പറയാം എന്തെന്നാൽ ഇത് മൈനസ് ഡൈവേർജെൻസ് പോലെയാണ് ഇതിന്നർത്ഥമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഒരു ലെൻസിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ നോക്കുക ഇവ ഡൈവേർജന്റ് ആണ് എന്ന് ഞാൻ പറയുന്നത് എന്തെന്നാൽ ഞാൻ ഇവിടെ ഒരു ചെറു വോളിയം എടുത്താൽ ഉള്ളിലേക്ക് വരുന്ന പ്രകാശം പുറത്തേക്ക് പോകുന്നു ഇത് ഒരു പക്ഷെ ഡൈവേർജെൻസ് ആയിരിക്കുകയോ അല്ലായിരിക്കുകയോ ആകാം പക്ഷെ മറിച്ച് ഞാൻ ഒരു സോഴ്സ് വെളിച്ചത്തിന്റെ ഒരു പോയിന്റ് സോഴ്സ് ഇവിടെ നിന്ന് പ്രകാശം എല്ലാ ഭാഗത്തേക്കും പോകുന്നു ഞാൻ ഇതിനു ചുറ്റും ഒരു ചെറിയ വ്യാപ്തം എടുക്കുകയാണെങ്കിൽ എല്ലാം പുറത്തേക്ക് മാത്രം പോകുന്നു അതിനാൽ ഇത് ഇപ്പോൾത്തന്നെ ഡൈവേർജെൻസ് ആണ് മറിച്ച് ഞാൻ ഒരു പോയിന്റ് എടുക്കുന്നു എല്ലാ വെളിച്ചവും ഇവിടേക്ക് വരുന്നു അപ്പോൾ ഞാൻ പറയും ഇത് കൺവേർജെൻസ് എന്തെന്നാൽ എല്ലാം ഈ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു ഇവിടെ ഈ പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നു ഇവിടെ ഈ പോയിന്റിൽ യഥാർത്ഥത്തിൽ കൺവേർജെൻസോ ഡൈവേർജെൻസൊ ഇല്ല നാം നേരത്തെ ചർച്ച ചെയ്തത് പോലെ ഡൈവേർജെൻസ് ആയിരിക്കാം എന്തെന്നാൽ എല്ലാം ഇവിടെ വെളിയിലേക്ക് വരുന്നു അപ്പോൾ ഇത് പോലെയുള്ള അവസ്ഥ നിങ്ങൾക്ക് എന്താണ് ഡൈവേർജെൻസ് സ്വഭാവം എന്നതിന്റെ ഒരു അനുഭവം നൽകുന്നു ഡൈവേർജെൻസ് സ്വഭാവം എന്നാൽ എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ രൊക്കം പുറത്തേക്കുള്ള ഒഴുക്കാണ് അല്ലെങ്കിൽ രൊക്കം അകത്തേക്കുള്ള ഒഴുക്കാണ് എല്ലാം ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇത് മൈനസ് ഡൈവേർജെൻസ് ആകാം